നമുക്ക് ഇതൊരു സംഖ്യാസംബന്ധമായ ഉദാഹരണം വെച്ച് ചെയ്യാം എനിക്ക് 7 മില്ലി ആമ്പിയർ കറണ്ട് സ്രോതസ്സ് ഒരു രണ്ട് കിലോ ഓം റെസിസ്റ്റർ ഇവിടെ ഒരു കിലോ ഓം റെസിസ്റ്റർ അവിടെ ഒരു നാല് കിലോ ഓം റസിസ്റ്റർ അവിടെ കൂടാതെ ഒരു 14 മില്ലി ആമ്പിയർ കറണ്ട് സ്രോതസ്സ് അവിടെ ഉണ്ട് ഇപ്പോൾ ഇത് വളരെ ലളിതമായ സർക്യൂട്ട് ആണ് നിങ്ങൾ നോഡൽ അനാലിസിസിലൂടെ ഉത്തരം കാണുവാൻ പോകേണ്ടതില്ല വാസ്തവത്തിൽ നിങ്ങൾക്ക് സൂപ്പർപൊസിഷൻ ചെയ്തു നോക്കാം കാരണം ഇതിനു രണ്ടു സ്രോതസ്സുകൾ ഉണ്ട് അത് ചെയ്യുവാനായി ഞാൻ നിങ്ങളെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ രണ്ടോ മൂന്നോ വ്യത്യസ്തമായ വഴികളിലൂടെ ഒരേ ഉത്തരം തന്നെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുവാനായി കുറെയേറെ ആത്മവിശ്വാസം കിട്ടും പക്ഷേ നമുക്ക് നോഡൽ അനാലിസിസിലൂടെ പോകാം കാരണം ഇതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നോഡൽ അനാലിസിസിൽ റെസിസ്റ്റൻസ് മൂല്യം എടുക്കുന്നതിനേക്കാൾ കണ്ടക്ടർ മൂല്യം എടുക്കുന്നതായിരിക്കും കൂടുതൽ സൌകര്യം അപ്പോൾ ഈ 1 കിലോ ഓം റെസിസ്റ്റർ ഇവിടെ ഈ 1 കിലോ ഓം റെസിസ്റ്റർ 1 മില്ലിസീമെൻസ് കണ്ടക്ടൻസ് ആയിട്ട് അനുരൂപമാണ് ഈ 2 കിലോ ഓം റെസിസ്റ്റർ ഹാഫ് മില്ലിസീമെൻ അല്ലെങ്കിൽ 2 മില്ലിസീമെൻസ് ആണ് ഈ 4 കിലോ ഓം 0 25 മില്ലിസീമെൻസ് അല്ലെങ്കിൽ മില്ലിസീമെന്റെ വൺ ഫോർത് ആണ് നമുക്ക് നോഡൽ അനാലിസിസിന്റെ സമവാക്യങ്ങൾ സജ്ജീകരിക്കണം അതിനുവേണ്ടി നമുക്ക് ഈ നോഡ് റഫറൻസ് നോഡ് ആയി തിരഞ്ഞെടുക്കാം റഫറൻസ് നോഡിനെ ആസ്പദമാക്കി ഞാൻ നോഡ് ഒന്നിലും രണ്ടിലും ഉള്ള ഈ V1 V2 വോൾട്ടേജുകൾ പരിഹരിക്കും അതിനാൽ എന്റെ നോഡൽ സമവാക്യങ്ങൾ എന്താണ് എനിക്ക് G മെട്രിക്സ് ഉണ്ട് അത് ഈ കേസിൽ 2 ബൈ 2 മെട്രിക്സ് ആയിരിക്കും എനിക്ക് രണ്ട് വേരിയബിളുകൾ V1 V2 ഉണ്ട് ഇത് നോഡ് ഒന്നിലേക്കും രണ്ടിലേക്കും കറണ്ട് കൊടുക്കുന്ന സ്വതന്ത്ര കറണ്ട് സ്രോതസ്സിന്റെ വെക്റ്ററിനു തുല്യം ആണ് അതിനാൽ ആദ്യം തന്നെ ഈ രേഖപ്പെടുത്തൽ എന്താണ് ഇവിടുത്തെ ആദ്യത്തെ രേഖപ്പെടുത്തൽ അതായത് നോഡ് ഒന്നിലെ കണ്ടക്ടൻസിന്റെ മൊത്തം തുക അതായത് ഒരു മില്ലിസീമെൻ പ്ലസ് ഹാഫ് മില്ലിസീമെൻ ഇത് 1 5 മില്ലിസീമെന് അനുരൂപമായിരിക്കുന്നു ഇനി ഇത് നോഡ് ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയിൽ ഉള്ള കണ്ടക്ടൻസിനു അനുരൂപമായിരിക്കുന്നത് മൈനസ് 1 മില്ലിസീമെൻ നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെ വന്നാലും ഇങ്ങനെ തന്നെ ആകണം എന്ന് കാരണം നമുക്കറിയാം കണ്ടക്ടൻസ് മെട്രിക്സ് സിമെട്രിക് ആണെന്ന് അവസാനം നോഡ് രണ്ടിൽ ഉള്ള കണ്ടക്ടൻസിന്റെ മൊത്തം തുക അതായത് 1 മില്ലിസീമെൻ പ്ലസ് 0 25 മില്ലിസീമെൻ അതായതു 1 25 മില്ലിസീമെൻ വലതുവശത്ത് നോഡ് ഒന്നിലേക്കും രണ്ടിലേക്കും കറണ്ടുകളുടെ വെക്ടർ കൊടുക്കുന്നുണ്ട് നോഡ് ഒന്നിലേക്കു കൊടുക്കുന്നത് മൈനസ് 7 മില്ലി ആംപിയർ ആണ് കാരണം 7 മില്ലി ആംപിയർ ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് മൈനസ് 7 മില്ലി ആംപിയർ ഇനി നോഡ് രണ്ടിലേക്കു കൊടുക്കുന്നത് പ്ലസ് 14 മില്ലി ആംപിയർ ആണ് ഇത് നമുക്ക് പരിഹരിക്കണം ഞാൻ ഈ ഫ്രാക്ഷൻ വേറെ രീതിയിൽ വീണ്ടും എഴുതട്ടെ അപ്പോൾ ഇൻവെർസ് കണ്ടുപിടിക്കുവാൻ എളുപ്പം ആണ് ഇത് 3 ബൈ 2 മില്ലിസീമെൻ മൈനസ് 1 മില്ലിസീമെൻ മൈനസ് 1 മില്ലിസീമെൻ പ്ലസ് 5 ബൈ 4 മില്ലിസീമെൻ എന്ന് എഴുതാം ഇത് പൂർണ്ണമായി വേണമെന്നില്ല നിങ്ങൾക്ക് തീർച്ചയായും ഡെസിമൽ ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ഞാൻ കാൽക്കുലേറ്ററുകൾ ഇല്ലാതെയാണ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാം മൈനസ് 7 കൂടാതെ പ്ലസ് 14 മില്ലി ആംപിയർ അതിനാൽ ഇത് G ഇത് V കൂടാതെ ഇത് I അതിനാൽ ഇപ്പോൾ എനിക്ക് ഇത് ഇൻവർട്ട് ചെയ്യണം ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്കിത് അറിയാമെന്ന് ഞാൻ സങ്കൽപ്പിക്കുകയാണു മറ്റൊരു പാഠത്തിൽ ഇത് ഞാൻ ചുരുക്കത്തിൽ ചർച്ച ചെയ്യാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിത് അറിയാമെന്ന് ഞാൻ സങ്കൽപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻറെ ഇൻവേഴ്സ് 1 ഓവർ മെട്രിക്ക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ഒരു 2 ബൈ 2 മെട്രിക്സ് ഇൻവെർട് ചെയ്യുവാൻ നമ്മൾ ഇത് ചെയ്യും ഇതിൻറെ യൂണിറ്റ് കിലോ ഓം ആകും അതായത് ഞാനിവിടെ യൂണിറ്റ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഈ സംഖ്യയുടെ യൂണിറ്റ് കിലോ ഓം ആയിരിക്കും അതിനാലാണു ഞാൻ പുറത്ത് കിലോ ഓം എന്ന് എഴുതുന്നത് അതായത് ഈ ഓരോ രേഖപ്പെടുത്തലിന്റെയും യൂണിറ്റ് മില്ലിസീമെൻസ്സ് ആണ് ഇതിന്റെ ഇൻവെർസ് കിലോ ഓം ആണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അകത്തും ഇടാം ഡിറ്റർമിനന്റിന്റെ യൂണിറ്റ് മില്ലിസീമെൻസ്സ് സ്ക്വയർ ആണ് ഇതിന്റെ ഓരോന്നിന്റെയും യൂണിറ്റ് മില്ലിസീമെൻസ്സ് മില്ലിസീമെൻസ്സ് ഡിവൈഡഡ് ബൈ മില്ലിസീമെൻസ്സ് സ്ക്വയർ നിങ്ങൾക്ക് കിലോ ഓം തരും ഇത് നിങ്ങൾ മൊത്തം വികസിപ്പിച്ചാൽ നിങ്ങൾക്ക് 1 ബൈ 7 തവണ 10 8 8 12 എല്ലാ കിലോ ഓമുകളും കിട്ടും അപ്പോൾ ഇതാണ് G മെട്രിക്ക്സിന്റെ ഇൻവെർസ് ഇനി അജ്ഞാതമായ വെക്റ്റർ V1 V2 G മെട്രിക്ക്സിന്റെ ഇൻവെർസ് തവണ കറണ്ട് വെക്റ്റർ മൈനസ് 7 മില്ലി ആമ്പ് 14 മില്ലി ആമ്പ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാം 6 വോൾട്ട് 16 വോൾട്ട് ഇപ്പോൾ ആ രണ്ടു നോഡ് വോൾട്ടേജ്ജുകളും 6 വോൾട്ടും 16 വോൾട്ടും ആയി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വതന്ത്ര സമ്പ്രദായങ്ങൾ അതായത് സൂപ്പർപൊസിഷൻ ഉപയോഗിച്ച് ഈ കേസിൽ ഇത് ഉറപ്പിക്കാം അതിനാൽ ഇപ്പോൾ നോഡൽ അനാലിസിസ് സമവാക്യം വെച്ച് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ അജ്ഞാതമായ നോഡ് വോൾടേജിജിന്റെ വെക്റ്റർ പരിഹരിച്ചിട്ടുമുണ്ട് ബാക്കി വളരെ എളുപ്പമാണ് സാധാരണ അസൈൻമെൻറ് ചോദ്യങ്ങളിൽ നിങ്ങളോട് എല്ലാ ബ്രാഞ്ചിലെയും വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കുവാൻ ചോദിച്ചെന്നിരിക്കില്ല പക്ഷേ V1 V2 ഉപയോഗിച്ച് ചിലതു നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചെന്നു ഇരിക്കും അത് നിങ്ങൾ പരിഹരിച്ചതാണ് അതിനാൽ ഇപ്പോൾ എനിക്കുള്ളത് റഫറൻസ് നോഡിനെ ആസ്പദം ആയിട്ടുള്ള ഈ ആറ് വോൾട്ട് ആണ് അതായത് ഈ വോൾട്ടേജ് ആറ് വോൾട്ട് ആണ് അതുപോലെതന്നെ ഈ വോൾട്ടേജ് 16 വോൾട്ടും ഇപ്പോൾ സർക്യൂട്ടുകളിൽ നോഡ് സാധാരണയാണ് നമുക്ക് പറയാം ആ നോഡിലെ വോൾടേജ് ആറ് വോൾട്ട് ആണെന്ന് ആ കേസുകളിൽ നമുക്ക് മനസ്സിലാക്കാം മറ്റേ നോഡ് ഒരു റഫറൻസ് നോഡ് ആണെന്ന് സാധാരണ രീതിയിൽ നോഡൽ അനാലിസിസിനു തിരഞ്ഞെടുത്ത റഫറൻസ് നോഡ് അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഗ്രൌണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു വോൾട്ടേജ് എപ്പോഴും 2 പോയിന്റുകൾക്ക് ഇടയിലാണ് അളക്കുന്നത് നിങ്ങൾക്ക് അത് വളരെ സ്പഷ്ടം ആകണം അതായത് നിങ്ങൾ വോൾട്ടേജ് വ്യക്തപ്പെടുത്തുന്ന രണ്ടു പോയിന്റുകൾ ഇനി ഇതിൻറെ ബാക്കി വളരെ എളുപ്പമാണ് കറണ്ട് സ്രോതസ്സിലെ കറണ്ട് നമുക്ക് അറിയാം ഈ റെസിസ്റ്ററിലൂടെ ഉള്ള കറണ്ട് 3 മില്ലി ആംപിയർ ആണ് അതിലൂടെ ഉള്ള കറണ്ട് 16 ബൈ 4 ആണ് അതായതു 4 മില്ലി ആംപിയർ ആ വഴിയിലൂടെ പോകുന്ന കറണ്ട് 10 മില്ലി ആംപിയർ ആണ് നിങ്ങൾക്ക് വേഗം പരിശോധിക്കാം ഓരോ നോഡിലെയും കിർച്ചോഫ് കറണ്ട് ലോ അത് സാധുവായിരിക്കും 14 മില്ലി ആംപിയർ ഇവിടെ നിന്ന് വലിക്കുന്നു ഇങ്ങനെ നോഡൽ അനാലിസിസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിലെ ഏത് വേരിയബിളിന് വേണ്ടിയും പരിഹാരം കണ്ടുപിടിക്കാം